നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്ആഫ്റെർനൂൺ ഇപ്പോൾ പ്രോജക്റ്റ് ഇവാലുവേഷന്റെയും പ്രോഗ്രാം മാനേജ്മെന്റിന്റെയും ശേഷിക്കുന്ന ഭാഗം ആരംഭിക്കാം പ്രോജക്റ്റുകളുടെ ഈ വിലയിരുത്തലിനെക്കുറിച്ച് നമ്മൾ ഇതിനകം കണ്ടു ഇപ്പോൾ ഈ പ്രോഗ്രാം മാനേജുമെന്റ് ഭാഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനാൽ ഈ പ്രഭാഷണത്തിൽ നമ്മൾ ആദ്യം പ്രോഗ്രാം മാനേജ്മെന്റിന്റെ വിവിധ ആശയങ്ങൾ ചർച്ച ചെയ്യും തുടർന്ന് എന്താണ് പ്രയോജനം ആനുകൂല്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നോക്കാം അതിനാൽ പ്രോഗ്രാം മാനേജുമെന്റിലേക്ക് പോകുന്നതിനുമുമ്പ് ആദ്യം ഒരു പ്രോഗ്രാം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം പ്രോജക്റ്റ് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ പ്രോഗ്രാം എന്നാൽ നിരവധി നിർവചനങ്ങൾ ഉണ്ട് ഒരു നിർവചനം ഡിസി ഫേൺസ് D C Ferns നൽകുന്നു അതിനാൽ ഈ നിർവചന പ്രോഗ്രാം അനുസരിച്ച് ഒരു കൂട്ടം പ്രോജക്റ്റുകൾ ഇത് പ്രോജക്റ്റുകളുടെ ഒരു ശേഖരമാണ് അവ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യേണ്ട പ്രോജക്ടുകൾ സാധ്യമല്ലാത്ത ചില ആനുകൂല്യങ്ങൾ നേടുന്നതിന് ഏകോപിപ്പിച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നു പദ്ധതികൾ നിയന്ത്രിക്കുന്നത് സ്വതന്ത്ര വ്യക്തികളാണെങ്കിൽ അവ പിന്നീട് സ്വതന്ത്രമായി നിയന്ത്രിക്കപ്പെടും അത് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വളരെ നിസാരമായിരിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കൂട്ടം പ്രോജക്ടുകൾ ഒരു ഏകോപിത രീതിയിൽ ഒരു കൂട്ടായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ സാധ്യമായ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും അത് ഉയർന്ന തോതിൽ ലഭിക്കേണ്ടതും ലഭിക്കാത്തതും പദ്ധതികൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യപ്പെടുന്നതുമാണ് അതായത് പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രോജക്റ്റുകൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാമായിരുന്നുവെങ്കിൽ സാധ്യമല്ലാത്ത ആനുകൂല്യങ്ങൾ നേടുന്നതിനായി ഒരു സംയോജിത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്റെ ഒരു കൂട്ടമാണ് പ്രോഗ്രാം എന്ന് നമുക്ക് വീണ്ടും ഓർമ്മിക്കാം ഇപ്പോൾ ലഭ്യമായ വ്യത്യസ്ത തരം പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു സ്ട്രാറ്റജിക്ക് പ്രോഗ്രാമുകളുടെ വ്യത്യസ്ത തരം പ്രോഗ്രാമുകളാണ് ഇവ അതിനാൽ സ്ട്രാറ്റജിക്ക് പ്രോഗ്രാമുകൾ എന്നത് ഒരു കൂട്ടം പ്രോജക്റ്റുകൾ ശേഖരിക്കുന്ന പ്രോജക്ടുകളാണ് അത് ഒരൊറ്റ സ്ട്രാറ്റജി നടപ്പിലാക്കുന്ന പ്രോജക്ടുകൾ മാത്രം പിന്തുടരും അവർ ഒരു സ്ട്രാറ്റജി നടപ്പിലാക്കും അതിനാലാണ് അവ സ്ട്രാറ്റജിക്ക് പ്രോഗ്രാമുകൾ എന്നറിയപ്പെടുന്നത് ബിസിനസ്സ് സൈക്കിൾ പ്രോഗ്രാമുകൾ ഒരു ബിസിനസ് ആസൂത്രണ ചക്രത്തിനുള്ളിൽ ഒരു ഓർഗനൈസേഷൻ ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകളുടെ ഗ്രൂപ്പുകളാണ് ഇവ ഒരു പ്രത്യേക ബിസിനസ്സ് ആസൂത്രണ ചക്രത്തിനുള്ളിൽ ഏത് വിഭാഗത്തിലുള്ള പ്രോജക്ടുകൾ ഒരു ഓർഗനൈസേഷൻ ഏറ്റെടുക്കുന്ന പ്രോജക്ടുകളുടെ ഗ്രൂപ്പുകൾ ബിസിനസ് സൈക്കിൾ പ്രോഗ്രാമുകൾ എന്നറിയപ്പെടുന്നു പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമുകൾ ഇവയാണ് പ്രോജക്റ്റുകളുടെ ഗ്രൂപ്പുകൾ അവ ചില പൊതു ഇൻഫ്രാസ്ട്രക്ചറുകളെ തിരിച്ചറിയുന്നതിനുള്ള പ്രവർത്തനങ്ങളും അതിന്റെ നടപ്പാക്കലും പരിപാലനവും നടത്തുന്നു അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പ്രോജക്റ്റുകളുടെ ഗ്രൂപ്പ് അവർ ചിലത് നിർവഹിക്കുന്നത് ചില പൊതു ഇൻഫ്രാസ്ട്രക്ചറുകൾ തിരിച്ചറിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതിനാലാണ് അതിന്റെ നടപ്പാക്കലും പരിപാലനവും ഈ പ്രോഗ്രാമിനെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാം എന്നറിയപ്പെടുന്നത് ആർ ആൻഡ് ഡി RDവികസനം അല്ലെങ്കിൽ ആർ ആൻഡ് ഡി പ്രോഗ്രാമുകൾ RD Programs എന്നറിയപ്പെടുന്ന കൂടുതൽ പ്രചാരമുള്ള ഗവേഷണ വികസന പ്രോഗ്രാമുകൾ ഇവ മനസിലാക്കാൻ വളരെ എളുപ്പമാണ് അതിനാൽ നിലവിലുള്ള ചില ഗവേഷണ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി ചില പുതിയ ഉൽപ്പന്നങ്ങൾ ചില നൂതന ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രോജക്റ്റുകളുടെ ഗ്രൂപ്പുകൾ ഇവയാണ് ഇതിനെ ഗവേഷണ വികസന പരിപാടികൾ അല്ലെങ്കിൽ ആർ ആൻഡ് ഡി പ്രോഗ്രാമുകൾ RD Programs തുടർന്ന് നൂതന പങ്കാളിത്തം എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഒരു ദിവസത്തെ നിരവധി കമ്പനികൾ അവർ ചില സഹകരണ പ്രോജക്ടുകൾ ചെയ്യുന്നു അവർ ഒന്നിച്ച് ചില പ്രോജക്റ്റുകൾ സഹകരിച്ച് കൈകാര്യം ചെയ്യുന്നു അതിനാൽ ഇത്തരത്തിലുള്ള പ്രോജക്ടുകൾ സമാന തരത്തിലുള്ള പ്രോജക്റ്റുകളുടെ ഗ്രൂപ്പുകളാണ് വിവിധ ഓർഗനൈസേഷനുകളുടെ സഹകരണത്തെ അടിസ്ഥാനമാക്കിയുള്ളത് നൂതന പങ്കാളിത്തം എന്നറിയപ്പെടുന്നു വിവിധ ഓർഗനൈസേഷനുകൾ നടത്തുന്ന ചില സഹകരണ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ പദ്ധതികൾ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് നമ്മൾ ഇതിനകം കണ്ടു ഇപ്പോൾ ഒരു പ്രോഗ്രാം മാനേജരും പ്രോജക്ട് മാനേജരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് റിസോഴ്സ് അലോക്കേഷനായുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകൾക്കുള്ള റിസോഴ്സ് അലോക്കേഷൻ എന്തുകൊണ്ട് അന്തിമ ഉപയോക്താക്കൾ ആരാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അവ സിസ്റ്റം അനലിസ്റ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർമാർ പ്രോഗ്രാമർമാർ കോഡറുകൾ തുടങ്ങിയവ ആകാം അതിനാൽ വിവിധ പ്രോജക്റ്റുകൾക്കോ വ്യത്യസ്ത പ്രോഗ്രാമുകൾക്കോ റിസോഴ്സ് എങ്ങനെ അനുവദിക്കാം ഇതിനുമുമ്പ് ഈ റിസോഴ്സ് അലോക്കേഷൻ അറിയുന്നതിനായിപ്രോഗ്രാം മാനേജർമാരും പ്രോജക്ട് മാനേജർമാരും തമ്മിൽ ഉള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം അതിനാൽ ഒരേസമയം നിരവധി പ്രോജക്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം പ്രധാനമായും പ്രോഗ്രാം മാനേജർക്കാണ് അതേസമയം പ്രോജക്ട് മാനേജർ ഒരു സമയം ഒരു പ്രോജക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതുപോലെ പ്രോഗ്രാം മാനേജർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ നൈപുണ്യ സ്രോതസുകളുമായും അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധമുണ്ട് പക്ഷേ ഒരു പ്രോജക്ട് മാനേജർക്ക് വ്യക്തിഗത ബന്ധമില്ല റിസോഴ്സുമായി അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധമുണ്ട് പ്രോഗ്രാം മാനേജരുടെ ലക്ഷ്യം റിസോഴ്സസിന്റെ ഒപ്റ്റിമൽ ഉപയോഗമാണ് നിങ്ങൾക്ക് റിസോഴ്സ് എത്രത്തോളം മികച്ച രീതിയിൽ ഉപയോഗിക്കാനാകും പക്ഷേ റിസോഴ്സിന്റെ ആവശ്യകത കുറയ്ക്കുന്നതിന് എങ്ങനെ നൽകാമെന്നതാണ് പ്രോജക്ട് മാനേജരുടെ ലക്ഷ്യം ആവശ്യങ്ങൾ എങ്ങനെ ചെറുതാക്കാം റിസോഴ്സസിന്റെ ആവശ്യങ്ങൾ എങ്ങനെ കുറയ്ക്കാം പിന്നെ പ്രോജക്ട് മാനേജർ പ്രോജക്റ്റ് മാനേജരുടെ കാര്യത്തിൽ പ്രോജക്റ്റുകൾ സമാനമായി കാണപ്പെടുന്ന പ്രവണത മിക്കവാറും പ്രോജക്റ്റുകൾ സമാനമാണ് എന്നാൽ പ്രോജക്ട് മാനേജർ അദ്ദേഹം പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജർക്ക് കീഴിലുള്ള പ്രോജക്ടുകൾ ഉപയോഗിക്കുന്നു അവ അദ്വിതീയമായി കാണപ്പെടുന്ന പ്രവണതയുണ്ട് അവ സമാനമല്ല പ്രോഗ്രാം മാനേജർമാരും പ്രോജക്റ്റ് മാനേജർമാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവയാണ് അതിനാൽ അതനുസരിച്ച് റിസോഴ്സ് വിവിധ പ്രോജക്ടുകൾക്ക് അനുവദിക്കാം ഇപ്പോൾ ഈ സ്ട്രാടെജിക്ക് പ്രോഗ്രാമുകളെക്കുറിച്ച് നമുക്ക് നോക്കാം സ്ട്രാടെജിക്ക് പ്രോഗ്രാം മാനേജുമെന്റ് നാം കാണണം അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ അറിയണം മുമ്പ് അറിഞ്ഞ ഈ സ്ട്രാടെജിക്ക് പ്രോഗ്രാം മാനേജുമെന്റുകൾ അറിഞ്ഞിരിക്കണം സ്ട്രാടെജിക്ക് പ്രോഗ്രാമുകൾ ഒരൊറ്റ സ്ട്രാടെജി മാത്രം നടപ്പിലാക്കുന്ന പ്രോജക്ടുകളാണിതെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സ്ട്രാടെജിക്ക് പ്രോഗ്രാം മാനേജുമെന്റിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു പ്രോഗ്രാം മാനേജുമെന്റിന്റെ വ്യത്യാസ രൂപമാണ് യഥാർത്ഥത്തിൽ ശീർഷകം സ്ട്രാടെജിക്ക് പ്രോഗ്രാം മാനേജുമെന്റ് ആയിരിക്കണം അതിനാൽ സ്ട്രാടെജിക്ക് പ്രോഗ്രാം എന്നാൽ പ്രോഗ്രാം മാനേജുമെന്റ് എന്നത് പ്രോഗ്രാം മാനേജ്മെന്റിന്റെ മറ്റൊരു രൂപമാണ് അവിടെ പ്രോജക്റ്റുകളുടെ പോർട്ട്ഫോളിയോ അവയെല്ലാം ഒരു പൊതു ലക്ഷ്യത്തിലേക്ക് സംഭാവന ചെയ്യുന്നു അവയെല്ലാം ഒരൊറ്റ സ്ട്രാടെജിക്കായി പ്രവർത്തിക്കുന്നു അവയെല്ലാം ഒരു പൊതു ലക്ഷ്യത്തിലേക്ക് സംഭാവന ചെയ്യുന്നു

ഈ ഒജിസി സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഗവൺമെന്റ് കൊമേഴ്സ് ഓഫീസിനെ ഒജിസി സൂചിപ്പിക്കുന്നിടത്ത് മുമ്പ് അത് സിസിടി യായി കാണിച്ചിരുന്നു നമ്മൾ ഉപയോഗിക്കേണ്ട പ്രാരംഭ ആസൂത്രണ പ്രമാണം ഒരു പ്രോഗ്രാം മാൻഡേറ്റ് ആണ് അതിനാൽ ഒരു പ്രോഗ്രാം എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നോക്കാം ഒരു പ്രോഗ്രാം സൃഷ്ടിക്കുന്നതിന് ഏത് തരത്തിലുള്ള പ്രമാണങ്ങൾ ആവശ്യമാണ് നമ്മൾക്ക് ഒരു പ്രോഗ്രാം സൃഷ്ടിക്കേണ്ട ആദ്യത്തെ പ്രമാണം പ്രോഗ്രാം മാൻഡേറ്റ് ആണ് ഈ പ്രാരംഭ ആസൂത്രണ പ്രമാണമാണ് പ്രോഗ്രാം മാൻഡേറ്റ് എന്നറിയപ്പെടുന്നത് പ്രോഗ്രാം മാൻഡേറ്റ് ഇനിപ്പറയുന്ന കാര്യങ്ങൾ വിവരിക്കുന്നു പുതിയ സേവനങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാം നൽകേണ്ട കഴിവുകളെ ഇത് വിവരിക്കുന്നു അതിനാൽ ഈ പ്രോഗ്രാമിൽ പരാമർശിക്കേണ്ട പ്രോഗ്രാം നൽകേണ്ട പുതിയ സേവനങ്ങൾ ഏതെല്ലാം അല്ലെങ്കിൽ ഏത് കഴിവുകളാണ് ഈ പ്രമാണം നിർബന്ധമാക്കുന്നത് പിന്നെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ മെച്ചപ്പെടുത്തും നിർദ്ദേശങ്ങൾ ഓർഗനൈസേഷനെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം ഈ നിർദ്ദേശങ്ങളെല്ലാം പ്രോഗ്രാം മാൻഡേറ്റിൽ ഉൾപ്പെടുത്തണം തുടർന്ന് സംഘടനാ ലക്ഷ്യങ്ങളിൽ നിന്ന് പുറത്തുകടക്കുക സേവനങ്ങളോ കഴിവുകളോ എന്തുചെയ്യുമെന്നത് നിർവ്വഹിക്കും അല്ലെങ്കിൽ അവ സംഘടനാ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നതായിരിക്കണം സംഘടനാ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഈ സേവന ശേഷികളും ഓർഗനൈസേഷനെ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും നിലവിലുള്ള ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങളുമായോ യോജിക്കുന്നതായിരിക്കണം ഒരു പ്രോഗ്രാം ഡയറക്ടർ ഈ പദ്ധതിക്കായി ഒരു ചാമ്പ്യനെ നിയമിച്ചു അതിനാൽ സാധാരണയായി തത്സമയം ഒരു പ്രോഗ്രാം ഡയറക്ടർ ഇത്തരത്തിലുള്ള സ്കീമുകൾക്കായി ഒരു ചാമ്പ്യനെ നിയമിച്ചു ആദ്യ പ്രമാണം ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രാം സൃഷ്ടിക്കുന്നതിനുള്ള ആദ്യ പ്രമാണം ഒരു പ്രോഗ്രാം മാൻഡേറ്റാണ് ഇപ്പോൾ ഒരു പ്രോഗ്രാം സൃഷ്ടിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട മറ്റ് പ്രമാണങ്ങൾ കാണേണ്ടതുണ്ട് ഒരു പ്രോഗ്രാം സൃഷ്ടിക്കുന്നതിന് നമ്മൾ ഇത്തരം പ്രമാണങ്ങൾ ഉപയോഗിക്കണം ഇപ്പോൾ ആദ്യം പ്രോഗ്രാം സംക്ഷിപ്തമായി പേര് നിർദ്ദേശിക്കുന്നതുപോലെ പ്രോഗ്രാം വിശദാംശങ്ങൾ ഇവിടെ ഹ്രസ്വമായി വിശദീകരിക്കണം അത് പ്രോഗ്രാം ഹ്രസ്വമെന്ന് അറിയപ്പെടുന്നു ഇത് പ്രായോഗിക പഠനത്തിന് തുല്യമാണ് നമ്മൾ നേരത്തെ കണ്ട പ്രായോഗിക പഠനം നിങ്ങൾ പഠിച്ച മൂന്ന് തരത്തിലുള്ള സാധ്യതകൾ സാങ്കേതിക സാധ്യത സാമ്പത്തിക സാധ്യത പ്രവർത്തന സാധ്യത എന്നിവ നമ്മൾക്കറിയാം ഏറ്റവും പ്രധാനം സാമ്പത്തിക സാധ്യത അല്ലെങ്കിൽ കോസ്റ്റ് ബെനെഫിറ്റ് അനാല്യ്സിസ് ഈ പ്രോഗ്രാം ഹ്രസ്വമായി ഇത് ഒരു സാധ്യതാ പഠനത്തിന് തുല്യമാണ് ഫിനാൻഷ്യൽ അസസ്മെൻറ് അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് വിശകലനത്തിന് ഇവിടെ പ്രാധാന്യം നൽകുന്നു തുടർന്ന് ഒരു പ്രസ്താവന ഉണ്ടായിരിക്കണം വിഷൻ സ്റ്റേറ്റ്മെന്റ് അടങ്ങിയ ഒരു പ്രമാണം ഓരോ ഓർഗനൈസേഷനും ഒരു ദർശന പ്രസ്താവന ഉണ്ടായിരിക്കണം ഈ പ്രമാണം ഓർഗനൈസേഷന് ഉണ്ടായിരിക്കേണ്ട പുതിയ കഴിവ് വിശദീകരിക്കുന്നു ഓർഗനൈസേഷന് ഏത് തരത്തിലുള്ള പുതിയ ശേഷിയുണ്ടാകും ഈ പ്രമാണം എന്ന് ഈ കാര്യം വിശദീകരിക്കുന്നു തുടർന്ന് ഒരു ബ്ലു പ്രിന്റ് ഉണ്ടായിരിക്കണം അതിനാൽ പുതിയ കഴിവ് നേടുന്നതിന് വരുത്തേണ്ട മാറ്റങ്ങൾ ഈ പ്രമാണം വിശദീകരിക്കുന്നു ഓർഗനൈസേഷന് ഉണ്ടായിരിക്കേണ്ട പുതിയ കഴിവ് ദർശന പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്നു അതേസമയം അവ പാലിക്കേണ്ട മാറ്റങ്ങൾ പുതിയ കഴിവ് നേടുന്നതിനായിരിക്കണം അത് ബ്ലൂപ്രിന്റ് ഒരു മാസ്റ്റർ പ്രിന്റ് അത് തയ്യാറാക്കേണ്ട ബ്ലൂപ്രിന്റ് കാരണം ഈ അർത്ഥത്തിൽ അവർക്ക് എല്ലാ ഓർഗനൈസേഷനും ബ്ലുപ്രിന്റ് ഉള്ള ഓർഗനൈസേഷനുകൾ ഉണ്ട് പുതിയ കഴിവ് നേടുന്നതിന് അവയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് ഈ രേഖകൾ വിശദീകരിക്കുന്നു പ്രോഗ്രാം മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ഏത് രേഖകൾ അല്ലെങ്കിൽ ഏത് ഡയഗ്രാമുകൾ അല്ലെങ്കിൽ പ്രോഗ്രാം മാനേജുമെന്റിനെ സഹായിക്കാൻ അവ ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ എന്നിവ നമുക്ക് പറയാം പ്രോജക്റ്റുകൾക്കിടയിൽ ശാരീരികവും സാങ്കേതികവുമായ ആശ്രയത്വമുണ്ടാകാം പല കേസുകളിലും പലരും ചില സന്ദർഭങ്ങളിൽ പദ്ധതികൾ സ്വതന്ത്രമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ പദ്ധതികൾ ആശ്രയിച്ചിരിക്കുന്നു അതായത് ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റൊരു പ്രോജക്റ്റിലേക്ക് പോകാൻ കഴിയില്ല ഉദാഹരണത്തിന് രണ്ട് ഓർഗനൈസേഷനുകൾ ഏത് രണ്ട് ഓർഗനൈസേഷൻ കമ്പ്യൂട്ടർ വിഭാഗങ്ങൾ ലയിപ്പിക്കണം എന്ന് നമുക്ക് നോക്കാം ഈ രണ്ട് ഓർഗനൈസേഷൻ കമ്പ്യൂട്ടർ വിഭാഗങ്ങൾ അല്ലെങ്കിൽ അവർ ലയിപ്പിക്കേണ്ട കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇതൊരു പ്രോജക്റ്റാണെന്ന് കരുതുക അതിനാൽ ഈ പ്രോജക്റ്റ് ഉണ്ട് മുമ്പ് രണ്ട് ഓർഗനൈസേഷനുകൾ അവർ രണ്ട് വ്യത്യസ്ത കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നു അവ ലയിപ്പിക്കുന്നതിനാൽ ഇത് ഒരു പ്രോജക്റ്റായി കണക്കാക്കാം ലയിപ്പിച്ച ശേഷം അവരെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന് കരുതുക രണ്ട് ഓർഗനൈസേഷനുകളുടെ കമ്പ്യൂട്ടർ വിഭാഗങ്ങൾ ലയിപ്പിക്കുന്ന ഈ പ്രോജക്റ്റ് പുതിയ കെട്ടിടത്തെ പൂർണമായും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പുതിയ കെട്ടിടത്തിന്റെ പൂർത്തീകരണം കാരണം പുതിയ കെട്ടിടം ഒഴികെ പൂർണ്ണമായും വികസിപ്പിച്ചെടുത്താൽ പൂർണ്ണമായും സജ്ജീകരിച്ചിരിക്കുന്നു രണ്ട് ഓർഗനൈസേഷനുകളുടെയും കമ്പ്യൂട്ടർ വിഭാഗങ്ങൾ മാറ്റാൻ കഴിയില്ല ഇവിടെ രണ്ട് ഓർഗനൈസേഷനുകളുടെ രണ്ട് കമ്പ്യൂട്ടർ വിഭാഗങ്ങൾ ലയിപ്പിക്കുന്നത് ഇത് ഒരു പ്രോജക്റ്റാണ് പുതിയ കെട്ടിടത്തിന്റെ പൂർത്തീകരണം മറ്റൊരു പ്രോജക്റ്റാണ് അതിനാൽ ഇവിടെ രണ്ട് ഓർഗനൈസേഷനുകളുടെയും രണ്ട് കമ്പ്യൂട്ടർ വിഭാഗങ്ങൾ ലയിപ്പിക്കുന്നത് രണ്ടാമത്തെ പ്രോജക്റ്റിനെ പൂർണമായും ആശ്രയിച്ചിരിക്കുന്നു ഇത് പുതിയ കെട്ടിടം പൂർത്തിയാക്കുകയോ ചെയ്യുന്നു ഈ ഡിപൻഡൻസികളെ നിങ്ങൾക്ക് എങ്ങനെ പ്രതിനിധീകരിക്കാം എന്നത് ശാരീരികമോ സാങ്കേതികമോ ആകാം പ്രോജക്റ്റുകൾ തമ്മിലുള്ള ഡിപൻഡൻസികളെ എങ്ങനെ പ്രതിനിധീകരിക്കാം അതിനാൽ ഇത് പ്രതിനിധീകരിക്കുന്നതിന് നിരവധി ഡയഗ്രമുകൾ ഉണ്ട് അവിടെയുള്ള ഒരു പ്രത്യേക ഡയഗ്രം ഡിപൻഡൻസി ഡയഗ്രം എന്ന് വിളിക്കുന്നു അതിനാൽ വ്യത്യസ്ത പ്രോജക്റ്റുകൾ തമ്മിലുള്ള ഭൌതികവും സാങ്കേതികവുമായ ആശ്രിതത്വത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഈ ഡിപൻഡൻസി ഡയഗ്രം ഉപയോഗിക്കാം അതിനാൽ പിഈആർടി അല്ലെങ്കിൽ CPM അറിയപ്പെടുന്ന ആക്റ്റിവിറ്റി നെറ്റ്വർക്കുകൾ പോലെ ഈ ഡിപൻഡൻസ് ഡയഗ്രം നിങ്ങൾ ആക്റ്റിവിറ്റി നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിരിക്കണം അതിനാൽ ഈ ഡിപൻഡൻസി ഡയഗ്രമുകൾ ആക്റ്റിവിറ്റി നെറ്റ്വർക്കുകളുമായി വളരെ സാമ്യമുള്ളതാണ് ഇപ്പോൾ ആനുകൂല്യ മാനേജ്മെന്റിനെക്കുറിച്ച് കാണാൻ പോകുന്നതിനുമുമ്പ് നമുക്ക് നോക്കാം എന്താണ് ഒരു പ്രയോജനം എല്ലാ ഒർഗനസേഷനും പ്രതീക്ഷ വെച്ചാണ് ഒരു നിക്ഷേപം നടത്തുന്നത് അതായത് നിക്ഷേപിച്ച തുക അവര്ക് തിരകെ കിട്ടുമെന്ന് കൂടാതെ കുറച്ച് ലാഭവും അതിനെയാണ് നമ്മൾ ആനുകൂല്യം എന്ന് വിളിക്കുന്നത് പല തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട് അവ ടാൻജിബിൽ ബെനെഫിട്ടോ ഇൻടാൻജിബിൽ ബെനെഫിട്ടോ ആകാം അവ ഡയറക്റ്റോ അല്ലാതെയോ ആകാം അവ ഫിക്സെഡ് അല്ലെങ്കിൽ വേരിയബിൾ ആകാം ഇവ വ്യത്യസ്ത തരത്തിലുള്ള ആനുകൂല്യങ്ങളാണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം ചില ആനുകൂല്യങ്ങൾ അവ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും അവ എളുപ്പത്തിൽ അളക്കാൻ കഴിയും അവ എളുപ്പത്തിൽ കണക്കാക്കാം അതേസമയം ചില ആനുകൂല്യങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല ചില ആനുകൂല്യങ്ങൾ അളക്കാൻ കഴിയില്ല ചില ആനുകൂല്യങ്ങൾ കണക്കാക്കാൻ കഴിയില്ല അതിനാൽ വ്യത്യസ്ത തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അറിയാമെന്നും അവയിൽ ഏതാണ് തിരിച്ചറിയാൻ കഴിയുക എന്നും അവയിൽ ഏതാണ് കണക്കാക്കാൻ കഴിയുക അവയിൽ ഏതാണ് അളക്കാൻ കഴിയുക എന്നിട്ട് അത് ആനുകൂല്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കും ഈ ബെനിഫിറ്റ് മാനേജുമെന്റ് ഇത് ഒരു ഓർഗനൈസേഷന് ഒരു കഴിവ് നൽകുന്നു ഇത് ആനുകൂല്യ മാനേജ്മെന്റിന്റെ ആവശ്യകത കൂടാതെ ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ഉറപ്പുനൽകുന്നില്ല ലളിതമായി പറഞ്ഞാൽ ഇത് ആനുകൂല്യ മാനേജ്മെന്റിന് നൽകുന്നു ഇത് ഒരു ഓർഗനൈസേഷന് ഗ്യാരണ്ടി നൽകാത്ത ഒരു കഴിവ് നൽകുന്നു ഇത് കൂടാതെ ആനുകൂല്യങ്ങൾ നൽകുമെന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നേടുന്നതിന് ഇത് ആവശ്യമാണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് അർത്ഥമാക്കുന്നില്ല അവ ശരിയായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അവർക്ക് ആനുകൂല്യ മാനേജ്മെന്റിന് ആവശ്യമുണ്ട് ഇത് പ്രോജക്റ്റിന് പുറത്തായിരിക്കണം പദ്ധതി പൂർത്തിയാകും അതിനാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പ്രോജക്റ്റ് പൂർത്തിയാകും ഈ ആനുകൂല്യ മാനേജുമെന്റ് സാധാരണയായി പ്രോജക്റ്റിന് പുറത്ത് കൈകാര്യം ചെയ്യുന്നു ഇത് പ്രോഗ്രാം തലത്തിലാണ് ചെയ്യുന്നത് ഓർഗനൈസേഷന് പ്രയോജനം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ചില പ്രോജക്റ്റുകൾ ആനുകൂല്യങ്ങൾ നൽകിയേക്കാമെന്ന് നിങ്ങൾക്കറിയാം ചില ആനുകൂല്യങ്ങൾ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം പക്ഷേ ഒരു പ്രോഗ്രാം തലത്തിൽ കൂടുതൽ നേട്ടങ്ങൾ നേടുകയെന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനാലാണ് ബെനിഫിറ്റ് മാനേജ്മെന്റ് നടത്തേണ്ടത് അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പ്രോജക്റ്റിന് പുറത്ത് പ്രോഗ്രാം തലത്തിലായിരിക്കാം ഈ ആനുകൂല്യ മാനേജ്മെന്റ് എന്താണ് അല്ലെങ്കിൽ ഈ ബെനിഫിറ്റ് മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതിന് നമ്മൾ എന്തുചെയ്യണം നമ്മൾ എന്തിന് വേണ്ടി ശ്രമിക്കണം പ്രോഗ്രാം മാനേജ്മെന്റിനെ കണ്ടതുപോലെ തന്നെ പ്രതീക്ഷിച്ച ആനുകൂല്യങ്ങൾ നമ്മൾ നിർവചിക്കേണ്ടതുണ്ട് ഈ ആനുകൂല്യങ്ങൾ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതിനായ ആദ്യം പ്രതീക്ഷിച്ച ആനുകൂല്യങ്ങൾ നിർവചിക്കാനുണ്ടു പ്രതീക്ഷിച്ച നേട്ടങ്ങൾ തിരിച്ചറിയണം അവ നിർവചിക്കേണ്ടതുണ്ട് പക്ഷേ അവ എളുപ്പത്തിൽ നിർവചിക്കാൻ കഴിയുന്ന ചില ആനുകൂല്യങ്ങൾ ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നിർവ്വചിക്കാൻ കഴിയില്ല വിലയും ആനുകൂല്യങ്ങളും തമ്മിലുള്ള ബാലൻസ് നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ചെലവും ആനുകൂല്യങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ വിശകലനം ചെയ്യേണ്ടതുണ്ട് അവ എത്രത്തോളം നിക്ഷേപം നടത്തിയെന്നതും ചെലവും എത്ര നേട്ടങ്ങളുമാണ് ടാൻജിബിൽ ഇൻടാൻജിബിൽ ഫിക്സെടും വേരിയബിളും ഉൾപ്പെടെ എല്ലാത്തരം ആനുകൂല്യങ്ങളും ഇവിടെ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ കണക്കിലെടുക്കണം കാരണം ചില മാനേജർമാർ സാധാരണഗതിയിൽ അവർ ഇൻടാൻജിബിൽ ആനുകൂല്യങ്ങൾ കണക്കിലെടുക്കുന്നില്ല കാരണം അവ അളക്കാൻ കഴിയാത്തതിനാൽ അവർക്ക് ഇൻടാൻജിബിൽ ആനുകൂല്യം കണക്കാക്കാൻ കഴിയുന്നില്ല കോസ്റ്റ് ബെനെഫിറ്റ് വിശകലനത്തിൽ അവർ കണക്കിലെടുക്കുന്നില്ല പക്ഷേ ടാൻജിബിൽ ഇൻടാൻജിബിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഫിക്സെടും വേരിയബിളും ഉൾപ്പെടെ സാധ്യമായ എല്ലാത്തരം ചെലവുകളും പരിഗണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആനുകൂല്യങ്ങൾ ടാൻജിബിൽ ഇൻടാൻജിബിൽ ആനുകൂല്യങ്ങൾ പോലുള്ള സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് വേരിയബിൾ ആനുകൂല്യങ്ങൾ കോസ്റ്റ് ബെനിഫിറ്റ് വിശകലന സമയത്ത് അവ കണക്കിലെടുക്കണം തുടർന്ന് ഈ ചെലവും ആനുകൂല്യങ്ങളും തമ്മിലുള്ള ബാലൻസ് നിങ്ങൾ വിശകലനം ചെയ്യണം അടുത്ത ഘട്ടം എങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കുമെന്നതാണ് പദ്ധതി ഇത്തവണ ഓർഗനൈസേഷൻ ഈ വർഷം വളരെയധികം നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചുവെന്ന് കരുതുക അടുത്ത വർഷം എങ്ങനെ ആനുകൂല്യങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കാം എന്ന് അവർ ആസൂത്രണം ചെയ്യണം അവർ ചില നിർദ്ദിഷ്ട പദ്ധതികൾ വികസിപ്പിക്കണം ആനുകൂല്യങ്ങൾ എങ്ങനെ പരമാവധി വർദ്ധിപ്പിക്കാം ആനുകൂല്യങ്ങൾ എങ്ങനെ ആയിരിക്കും ഭാവിയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കും തുടർന്ന് അവരുടെ നേട്ടത്തിനായി ഉത്തരവാദിത്തങ്ങൾ അനുവദിക്കുക അതിനാൽ പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത വ്യക്തികൾ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത വ്യക്തികൾ അവരുടെ നേട്ടത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നൽകും ഇത് പദ്ധതിയിൽ ആയിരിക്കണം അവരുടെ നേട്ടത്തിന് സമാനമായ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിയോഗിക്കേണ്ടതുണ്ട് നേട്ടങ്ങളുടെ നേട്ടം നിരീക്ഷിക്കുക നിങ്ങൾ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്ത് നേട്ടങ്ങൾ നേടാം എന്നിട്ട് പ്ലാൻ തയ്യാറാക്കിയാൽ മാത്രം പോരാ തുടർന്ന് അവയെ നിരീക്ഷിക്കണം പതിവായി നേട്ടങ്ങളുടെ നേട്ടം നിരീക്ഷിക്കേണ്ടതുണ്ട് ഈ വർഷം ലക്ഷ്യമിടുന്നതെന്താണെന്ന് നാം കാണേണ്ടതുണ്ട് ഇടയ്ക്കിടെ ഇടവേളകളിൽ പറയേണ്ടത് എന്താണ് ലക്ഷ്യമെന്ന് നമ്മൾ അടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ലക്ഷ്യത്തെ പിന്നിലാക്കുന്നുണ്ടോ എന്ന നേട്ടം അതിനാൽ നിങ്ങൾ ടാർഗെറ്റിനേക്കാൾ വളരെ പിന്നിലാണെങ്കിൽ എന്ത് മുൻകരുതലുകൾ എന്ത് പരിഹാര നടപടികളാണ് ചെയ്യേണ്ടത് ടാർഗെറ്റ് ആനുകൂല്യം നേടുന്നതിന് നേട്ടങ്ങളുടെ നേട്ടം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും വേണം ആനുകൂല്യങ്ങളുടെ നേട്ടം നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന് ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ ഇത് എങ്ങനെ ചെയ്യാം ആനുകൂല്യങ്ങളുടെ നേട്ടങ്ങൾ എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ആനുകൂല്യങ്ങൾ നേടാൻ കഴിയില്ല കാരണം നമ്മുടെ സേവനം നൽകുകയോ ഉൽപ്പന്നം നൽകുകയോ ചെയ്താൽ നമ്മുക്ക് നിശ്ചിത സമയത്ത് നൽകാൻ കഴിയില്ല നിങ്ങൾ എന്തിനാണ് പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് കാലതാമസം സംഭവിക്കുന്നത് എന്ന് കാണേണ്ടതുണ്ട് അതിനാൽ മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളാൻ കഴിയും ഈ കാലതാമസം ഒഴിവാക്കാനാകും നമുക്ക് കൂടുതൽ സേവനങ്ങൾ നൽകാൻ കഴിയുന്ന സേവനം കാലതാമസം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയും അതിനാൽ അത് കൂടുതൽ ലാഭം നൽകും അതുകൊണ്ടാണ് നേട്ടങ്ങളുടെ നേട്ടം നിരീക്ഷിക്കാൻ പതിവായി ചെയ്യേണ്ടത് നാം പിന്നിലാണെങ്കിൽ എന്തെങ്കിലും പരിഹാര നടപടികൾ കൈക്കൊള്ളണം അതിനാൽ ടാർഗെറ്റു ചെയ്ത ആനുകൂല്യങ്ങളുമായി നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയും ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ പ്രോജക്റ്റുകൾക്ക് സാധ്യമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നോക്കാം ഈ ആനുകൂല്യങ്ങൾ ഇവയിൽ നിർബന്ധിത ആവശ്യകത ഏത് തരത്തിലുള്ള ആവശ്യകതകൾ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഒരു ആനുകൂല്യം ലഭിക്കാം അതിനാൽ നിർബന്ധിത ആവശ്യകത സേവനത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി ഇതിനെ QoS എന്ന് വിളിക്കുന്നു സേവനത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം ഞാൻ ഇതിനകം കാണിച്ച ഉദാഹരണത്തിൽ ആ സ്വയമേവ ആനുകൂല്യങ്ങൾ വരും സേവനങ്ങൾ നൽകുന്നതിൽ വളരെയധികം കാലതാമസമുണ്ടെങ്കിൽ ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിൽ നിങ്ങൾ വളരെ കാലതാമസമുണ്ടെങ്കിൽ വ്യക്തമായും അന്തിമ ഉപയോക്താവ് അസംതൃപ്തനാകും ഉപഭോക്താക്കളുടെ അസംതൃപ്തി എത്രത്തോളം പ്രയോജനമല്ലെന്ന് നിങ്ങൾക്കറിയാം തൃപ്തികരമായ ഉപയോക്താക്കൾ എത്ര ഇൻടാൻജിബിൽ നേട്ടമാണെങ്കിലും അത് എന്ത് കൊണ്ടുവരും കൂടുതൽ ലാഭം നേടാൻ കഴിയുന്ന ഓർഗനൈസേഷന് എന്ത് പ്രശസ്തിയും അതിനാൽ നമ്മൾ സേവനത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉൽപാദിപ്പിക്കാൻ കഴിയും ഇതിനെ ഈ വർദ്ധിച്ച ഉൽപ്പന്ന ഉൽപാദനക്ഷമതയെന്താണ് വ്യത്യസ്തമെന്ന് നിങ്ങൾ കണ്ടേക്കാം ചില ഓട്ടോമേറ്റഡ് ടൂളുകളോ മറ്റ് ചില കാര്യങ്ങളോ ഉപയോഗിച്ചേക്കാം അതിനാൽ നിങ്ങൾക്ക് ഉൽപാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം ഒരു നിശ്ചിത കാലയളവിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം തുടർന്ന് കൂടുതൽ പ്രചോദിതരായ തൊഴിൽ ശക്തി മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കാൻ കഴിയും അതിനാൽ കൂടുതൽ പ്രചോദിതരായ തൊഴിൽ ശക്തിയും കൂടുതൽ ലാഭകരമായ തൊഴിൽ സേനയിലേക്ക് ലാഭം കൊണ്ടുവരും ഈ ഓർഗനൈസേഷന് ലാഭം ലഭിക്കും അപ്രകാരം ആന്തരിക മാനേജ്മെന്റ് ഇടയിൽ അങ്ങനെ ആനുകൂല്യം ഓർഗനൈസേഷൻ എങ്ങനെ അവബോധം സൃഷ്ടിക്കാൻ കഴിയും മികച്ച മാനേജുമെൻറ് അതിനാൽ നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും ഉദാഹരണത്തിന് ചില അവാർഡുകൾ മുതലായവ നൽകിക്കൊണ്ടും ജീവനക്കാർക്ക് ചില പദ്ധതികൾ നൽകുന്നതിലൂടെയും ജീവനക്കാർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഒരു അവബോധം സൃഷ്ടിക്കും അതിനാൽ ജീവനക്കാർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകാം മികച്ചതും വ്യത്യസ്തവുമായ ആനുകൂല്യങ്ങൾക്ക് എന്താണ് പ്രചോദനം മാനേജ്മെന്റിന് ആന്തരികമാണ് അവ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം ഉദാഹരണത്തിന് വിൽപ്പനയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ഒരു കാര്യം ചെയ്യുന്നതെന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ കരുതുന്നു ഇപ്പോൾ വിൽപ്പനയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിൽപ്പന സൃഷ്ടിക്കുകയാണെന്ന് കരുതുക ഓവർടൈം ജോലി ചെയ്യേണ്ട ജോലിക്കാരെ നിങ്ങൾ നൽകുകയാണെങ്കിൽ കൂടുതൽ വിൽപന നേടു൦ കൂടുതൽ വിൽപ്പന ലഭിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കുറവായിരിക്കാം തുടർന്ന് ഓവർടൈമിലെ ജീവനക്കാർക്ക് നൽകേണ്ട തുക അത് ഒരു ആനുകൂല്യമായി കണക്കാക്കില്ല പകരം അത് നിരാകരണം ആകും ഇതിനെ നമ്മൾ ഒഴിവാക്കണം ആനുകൂല്യങ്ങളെ മെച്ചപെടുതുന്നതിനായി ഈ കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്ക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അപകടസാധ്യത കുറയ്ക്കുന്നതുമൂലം എന്ത് പ്രയോജനം ലഭിക്കും ബിസിനസ്സ് അപകടസാധ്യതകൾ പ്രോജക്റ്റ് അപകടസാധ്യതകൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത തരം അപകടസാധ്യതകൾ നിങ്ങൾ ഇതിനകം കണ്ടു അപകടസാധ്യതകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായും കൂടുതൽ അപകടസാധ്യതകൾ ഉള്ളിടത്ത് കൂടുതൽ നേട്ടമുണ്ട് കൂടുതൽ ലാഭമുണ്ട് പക്ഷേ അപകടസാധ്യതകൾ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രധാനമാണ് അപകടസാധ്യതകളുടെ എണ്ണം എങ്ങനെ കുറയ്ക്കാമെന്ന് നമ്മൾ ശ്രമിക്കും അങ്ങനെ ആത്യന്തികമായി ആനുകൂല്യങ്ങൾ മെച്ചപ്പെടാം അതുപോലെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും സംഘടനയുടെ സാമ്പത്തിക നിലയെക്കുറിച്ചും അത് എങ്ങനെ മെച്ചപ്പെടുത്താമെന്നതിനെക്കുറിച്ചും നാം കാണണം സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായും ആനുകൂല്യങ്ങൾ ഓർഗനൈസേഷന് വരും തുടർന്ന് വരുമാനം വർദ്ധിപ്പിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യും നിങ്ങൾ എന്തുചെയ്യണം കാരണം വരുമാനം വർദ്ധിപ്പിക്കുന്നത് ഒരു നേട്ടമായി കണക്കാക്കുന്നു വരുമാനം ത്വരിതപ്പെടുത്തുന്നതിന് നമ്മൾ എന്ത് നടപടികൾ കൈക്കൊള്ളണം ആ ഘട്ടങ്ങൾ കർശനമായി പാലിക്കുകയാണെങ്കിൽ സ്വയമേവ വരുമാനം ത്വരിതപ്പെടുത്തലും അതുപോലെ തന്നെ സ്ട്രാറ്റജിക്ക് ഫീൽഡ് ഫിറ്റും വർദ്ധിപ്പിക്കും ലാഭം പരമാവധിയാക്കുന്നതിന് ലാഭം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ പ്രത്യേകിച്ചും സ്ട്രാറ്റജി മെച്ചപ്പെടുത്തണം ഇവ സ്ട്രാറ്റജിക്ക് ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തലം പ്രോഗ്രാം തലത്തിൽ സ്ട്രാറ്റജിക്ക് തലവും കാണണം സ്ട്രാറ്റജിക്ക് സാങ്കേതികതകളോ സ്ട്രാറ്റജിക്ക് പ്രവർത്തനങ്ങളോ പ്രോജക്റ്റ് ലെവൽ അവ വ്യക്തമായി നിർവചിക്കേണ്ടതുണ്ട് അതിനാൽ ആനുകൂല്യങ്ങൾ ഒരു പ്രോജക്റ്റിനോ പ്രോഗ്രാമിനോ ഓർഗനൈസേഷനോ പരമാവധി വർദ്ധിപ്പിക്കും അടുത്തതായി ആനുകൂല്യങ്ങൾ കണക്കാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാം നമുക്ക് എങ്ങനെ ആനുകൂല്യങ്ങൾ കണക്കാക്കാം കണക്കാക്കാനും വിലമതിക്കാനും കഴിയുന്ന ചില ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഉദാഹരണത്തിന് എക്സ് സ്റ്റാഫ് സേവിംഗ് ഡോളർ y കുറയ്ക്കുന്നു നിലവിലുള്ള സിസ്റ്റത്തിന്റെ ഓട്ടോമേഷൻ കാരണം മുമ്പ് ഇത് സ്വപ്രേരിതമായി സ്വമേധയാ ഉള്ളതായിരുന്നു നമ്മൾ 10 സ്റ്റാഫ് അംഗങ്ങളെ കുറച്ചിട്ടുണ്ട് അതിനാൽ 200 ഡോളർ ലാഭിച്ചു ഇത് എളുപ്പത്തിൽ കണക്കാക്കാനും വിലമതിക്കാനും കഴിയും ചില ആനുകൂല്യങ്ങൾ കണക്കാക്കാൻ കഴിയും പക്ഷേ അവ വിലമതിക്കാനാവില്ല ഉദാഹരണത്തിന് ഉപഭോക്തൃ പരാതികളിൽ കുറവ് മുമ്പ് ഇത് മാനുവൽ ആയിരുന്നു ഇപ്പോൾ ഇത് ഓട്ടോമേറ്റഡ് ആക്കി അതിനാൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഉപഭോക്താവിന്റെ പരാതികളാണ് അത് വിജയകരമായി കുറയുന്നു നമുക്ക് അത് എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയും എന്നാൽ നേട്ടമെന്നോ നമുക്ക് ലഭിക്കുന്ന മൂല്യം എന്നോ അതിനെ വിലമതിക്കാനാവില്ല അതുപോലെ ചില ആനുകൂല്യങ്ങൾ അവ തിരിച്ചറിയാൻ കഴിയും പക്ഷേ അവ എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് പ്രദേശത്തെ ഒരു ഓർഗനൈസേഷന് പൊതു അംഗീകാരം ലഭിക്കുന്നത് ഏറ്റവും മികച്ചതാണെന്ന് കരുതുക നിങ്ങൾ ഈ മൊബൈൽ വ്യവസായങ്ങൾ എടുക്കുന്നു നിങ്ങളുടെ പ്രദേശത്ത് ഒരു ടവർ സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതിനായി അവർ പ്രാദേശിക അതോറിറ്റിയുടെ അനുമതി വാങ്ങണം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവർക്ക് ഒരു ടവർ സ്ഥാപിക്കാം വ്യക്തമായും അവ എന്തൊക്കെയാണ് മൊബൈലുകൾ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ സിംസ് അവ കൂടുതൽ വിൽക്കപ്പെടും അവർക്ക് കൂടുതൽ നേട്ടം ലഭിക്കും ഒരു മൊബൈൽ വ്യവസായത്തിന് ഒരു പൊതു അംഗീകാരം പോലുള്ള ആനുകൂല്യങ്ങൾ പ്രദേശത്ത് ടവർ ആകാം അവർക്ക് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ടവർ സ്ഥാപിക്കാനും അവർക്ക് കൂടുതൽ മൊബൈൽ സിമ്മുകൾ വിൽക്കാനും കഴിയും അതിനാൽ അവരുടെ പ്രയോജനം കൂടുതൽ ആയിരിക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവ തിരിച്ചറിയാൻ കഴിയും പക്ഷേ അവ എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയില്ല ഈ ക്ലാസ്സിൽ ഒരു പ്രോഗ്രാം എന്താണെന്നും വിവിധ തരം പ്രോഗ്രാം മാനേജുമെന്റിന്റെ ചില വിശദാംശങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ചചെയ്തു എന്താണ് ഒരു പ്രയോജനം എന്താണ് വിവിധതരം ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നിവ ഇവയാണ് റഫറൻസുകൾ നമ്മൾ എടുത്ത മിക്ക കാര്യങ്ങളും റഫറൻസ് നമ്പർ 1 ആണ് വ്യത്യസ്ത തരം ചെലവും ആനുകൂല്യങ്ങളും മാത്രം നമുക്ക് റഫറൻസ് നമ്പർ 2 ൽ കാണാൻ കഴിയും വളരെയധികം നന്ദി